നമുക്ക് ഇനി ട്രാൻസാക്ഷനിനെക്കുറിച്ച് ബാക്കി നോക്കാം ട്രാൻസാക്ഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഷെഡ്യൂളുകളെ കുറിച്ചും ചില റിക്കവറി കൺട്രോൾ സിസ്റ്റങ്ങളെ കുറിച്ചും നമ്മൾ നോക്കി ഇനി നമുക്ക് കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോളിനെ കുറിച്ച് നോക്കാം കൺകറൻസി കൺട്രോൾ പ്രോട്ടോക്കോളുകൾ എന്താണ് എന്നു വെച്ചാൽ നമ്മൾ രണ്ടോ അതിൽ കൂടുതലോ ഷെഡ്യൂളിൽ ഉള്ള ട്രാൻസാക്ഷനുകളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് തീരുമാനിക്കുന്നത് ആണ് അപ്പോൾ ഇവിടെ ലോഗ്സ് വരും എപ്പോഴാണ് ഒരു പ്രത്യേക ഡേറ്റ ഐറ്റത്തെ ഒരു ട്രാൻസാക്ഷണലിലോട്ട് കടത്തി വിടേണ്ടത് എന്നുള്ളതും ഇവിടെ വരും അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കൺകറൻസി കൺടോൾ പ്രോട്ടോകോളിനെ കുറിച്ചാണ് പറയുന്നത് കൺകറൻസിയെ ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് ലോക്ക് ഉപയോഗിക്കാം OS അതായത് ഓപ്പറേഷൻ സിസ്റ്റവും ഡേറ്റാ ബെയ്സും കൺകറൻസി സുദൃഡമാക്കുവാൻ വേണ്ടി ലോക്കുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ ലോക് എന്നത് നിയന്ത്രണത്തെ അക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു ഇത് അപ്പോൾ ഒരു ഡേറ്റാ ഐറ്റത്തെ അക്സ്സ് ചെയ്യുന്നതിനുള്ള നിയന്ത്രണം നടത്തുന്നു അതേസമയം ഇത് ലോക്കിലേക്കുള്ള അപേക്ഷകൾ ഉണ്ടാക്കുകയും ലോക്കുകൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യും ഡേറ്റാ ബെയിസിൽ ഒരു മൊഡ്യൂൾ ഉണ്ട് അതിനെ കൺകറൻസി കൺട്രോൾ മാനേജർ എന്നാണ് പറയുന്നത് അപ്പോൾ ഡേറ്റാ ബെയിസിലെ ഈ ഒരു മോഡ്യൂൾ ആണ് കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോളുകളെ കൈകാര്യം ചെയ്യുന്നതും ലോക്കുകളെ കൈകാര്യം ചെയ്യുന്നതും ലോക്കുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ എല്ലാം ഈ കൺകറൻസി കൺട്രോൾ മാനേജറിലേക്കാണ് പോകുന്നത് അതാണ് ഇവിടെ ഒരു ലോക്ക് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്ക് കൊടുക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷന് ലോക്ക് കിട്ടും എന്നിട്ട് ആ ഡേറ്റാ ഐറ്റത്തിന്റെ ഓപ്പറേഷനിലേക്ക് കടക്കും ഇനി അത് തടയപ്പെടുകയാണെങ്കിൽ ഇതിന് കാത്തിരിക്കേണ്ടി വരും സാധാരണയായി ട്രാൻസാക്ഷൻ ഇത് അനുവദിക്കപ്പെടുന്നതു വരെ കാത്തിരിക്കും മറ്റൊരു കാര്യം എന്തെന്നാൽ ഒരു ഡേറ്റ ഐറ്റത്തിന്റെ ട്രാൻസാക്ഷൻ ലോക്കു ചെയ്യുന്നതും അൺലോക്ക് ചെയ്യുന്നതുമായ ഓപ്പറേഷനുകൾ അറ്റോമിക് ആയിരിക്കണം രണ്ടു ട്രാൻസാക്ഷനുകളും ഒരു പ്രത്യേക ഡേറ്റ ഐറ്റത്തിനെ ലോക്ക് ചെയ്യുവാൻ ശ്രമിക്കുവാൻ പാടില്ല അതിൽ ഒന്ന് മാത്രമായിരിക്കണം ലോക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒന്നും ചെയ്യുവാൻ പാടില്ല അപ്പോൾ ഒന്നിനു മാത്രമേ ചെയ്യുവാൻ പറ്റുകയുള്ളൂ അത് മറ്റൊരു പ്രശ്നമാണ് അപ്പോൾ ഇവ എല്ലാം അറ്റോമിക് ഓപ്പറേഷൻ ആണ് ലോക്കിങ്ങും ആൺ ലോക്കിങ്ങും ഈ ഓപ്പറേഷൻകൾ സ്വന്തമായി തന്നെ അറ്റോമിക്കുകളാണ് ഒന്നുകിൽ പൂർണ്ണമായും ഒരു ട്രാന്സാക്ഷന് ഒരു ലോക്ക് കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല രണ്ട് ട്രാൻസാക്ഷനുകൾ ഒരേ സമയത്ത് തന്നെ ലോക്കിനായുള്ള അപേക്ഷ കൊടുത്താലും അവർക്ക് അങ്ങനെ കിട്ടുകയില്ല ഒരെണ്ണത്തിന് മാത്രമേ പരമാവധി കിട്ടാൻ സാധ്യത ഉള്ളൂ അപ്പോൾ ഒരു ഡേറ്റ ഐറ്റത്തെ നമുക്ക് ലോക്ക് ചെയ്യുവാനും അൺലോക്ക് ചെയ്യുവാനും സാധിക്കും അതിൽ ഒരു ഡേറ്റ ഐറ്റത്തെ നമ്മൾ ലോക്ക് ചെയ്യുന്നത് രണ്ടു മോഡുകൾ വഴി ആണ് ആദ്യത്തേതിനെ എക്സ്ക്ളുസിവ് ലോക്ക് എന്ന് പറയുന്നു അവയെ പ്രതിപാദിച്ചിരിക്കുന്നത് X ഉപയോഗിച്ചിട്ടാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡേറ്റ ഐറ്റത്തിനെ എഴുതുവാനും വായിക്കുവാനും സാധിക്കും എന്നാണ് അപ്പോൾ ഒരു ട്രാൻസാക്ഷന് എക്സ്കൂളൂസിവ് ലോക്ക് ഒരു ഡേറ്റാ ഐറ്റത്തിൽ കിട്ടിയാൽ ആ ട്രാൻസാക്ഷന് ആ ഡേറ്റ ഐറ്റത്തിനെ എഴുതാനും വായിക്കുവാനും സാധിക്കും മറ്റൊരു തരത്തിലുള്ള ലോക്ക് എന്നത് ഷെയേട് ലോക്ക് ആണ് അതിനെ പ്രതിപാദിച്ചിരിക്കുന്നത് S ഉപയോഗിച്ചാണ് അതായത് ഏതൊരു ട്രാൻസാക്ഷന് ആണോ ഷേയേട് ലോക്ക് ഒരു ഡേറ്റാ ഐറ്റത്തിന് കിട്ടുന്നത് അതിന് വായിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളു അങ്ങനെ വരുമ്പോൾ അതിന് ഒരു ഡേറ്റാ ഐറ്റത്തിനെ എഴുതുവാൻ സാധിക്കുകയില്ല പകരം വായിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളു അപ്പോൾ ഈ എക്സ്ക്ലൂസീവ് ലോക്കും ഷെയേട് ലോക്കും വളരെ പ്രധാനപ്പെട്ടവയാണ് മറ്റൊന്ന് ലോക്ക് കോംപാറ്റിബിലിറ്റി മെട്റിക്സ് എന്നതാണ് അത് പല തരത്തിലുള്ള ലോക്കുകളുടെ കോംപാറ്റുബിലിറ്റിയെ കുറിച്ചു പറയുന്നു ഉദാഹരണത്തിന് രണ്ട് ട്രാൻസാക്ഷനുകൾ ഉണ്ട് എന്ന് കരുതുക അവക്ക് ലോക്കുകളും ഉണ്ട് ഒരേ ഡേറ്റാ ഐറ്റത്തെയാണ് നമ്മൾ കണക്കാക്കുന്നത് അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാ എന്നും കരുതുക അപ്പോൾ ഇവിടെ രണ്ടു ട്രാൻസാക്ഷനുകൾ ഉണ്ട് റോ ഒരു ട്രാൻസാക്ഷനെയും കോളം മറ്റൊരു ട്രാൻസാക്ഷനെയും കാണിക്കുന്നു ഇനി ഈ ട്രാൻസാക്ഷന് ഷെയേട് ലോക്ക് ആണ് കിട്ടിയിരിക്കുന്നത് അടുത്ത ട്രാൻസാക്ഷന് ഷെയേട് ലോക്ക് വേണം അതിന് അത് കിട്ടുമോ ഇനി ഒരു ട്രാൻസാക്ഷന് ഷെയേട് ലോക്ക് ഉണ്ട് അടുത്തത് എക്സ്ക്ലൂസീവ് ലോക്ക് വേണം അതിന് കിട്ടുമോ അതുപോലെ ഇനി ഒരെണ്ണത്തിന് എക്സ്ക്ലൂസീവ് ലോക്ക് ഉണ്ട് അടുത്തതിന് ഷെയർ ലോക്ക് വേണം അതിന് അത് കിട്ടുകയില്ല ഇനി അതുപോലെ ഒരെണ്ണത്തിന് എക്സ്ക്ലൂസീവ് ലോക്ക് ആണ് ഉള്ളത് എങ്കിൽ അടുത്തതിന് എക്സ്ക്ലൂസീവ് ലോക്ക് കിട്ടുകയില്ല ഇനി ഇങ്ങനെ വരുകയാണെങ്കിൽ എഴുതുന്നതിൽ ഉണ്ടാകുന്ന സംഘർഷത്തെ നമ്മൾ തടയേണ്ടതാണ് രണ്ട് ട്രാൻസാക്ഷൻ ആണ് ഉള്ളത് അവ രണ്ടു പേർക്കും ഒരേകാര്യം എഴുതണം എന്നാണെങ്കിൽ അവ രണ്ടു പേർക്കും X ലോക്ക് വേണം എന്നാണ് വരുന്നതെങ്കിൽ അത് കൊടുക്കുവാൻ സാധിക്കുകയില്ല ഒരു ആൾക്ക് വായിക്കുവാൻ വേണം എന്നിട്ട് മറ്റൊരാൾക്ക് എഴുതുവാൻ വേണം എന്നാണെങ്കിൽ അടുത്ത ട്രാൻസാക്ഷന് X അല്ലെങ്കിൽ ഷെയേട് ലോക്ക് കിട്ടില്ല കാരണം അത് എക്സ്ക്ലൂസീവ് ലോക്ക് ആണ് എടുത്തിരിക്കുന്നത് രണ്ട് ട്രാൻസാക്ഷനുകൾക്ക് സംഘർഷമില്ലാതെ വരാൻ സാധിക്കുന്നത് അവർക്ക് രണ്ടു പേർക്കും ഒരു ഡേറ്റാ ഐറ്റത്തെ വായിക്കുവാൻ വേണ്ടി വരുമ്പോൾ ആണ് അവക്ക് രണ്ടു പേർക്കും ഷെയേട് ലോക്ക് എടുക്കാവുന്നതാണ് അതാണ് എസ് ടു എസ് മെട്രിക്സ് എസ് ടു എസിൽ ഇവിടെ എസ് വരും അവക്ക് അതിലുടെ മുന്നോട്ടു പൊക്കുവാൻ പറ്റും അപ്പോൾ വായനയിൽ സംഘർഷം ഉണ്ടാകുന്നില്ല ഈ ലോക്ക് കോംപാറ്റുബിലിറ്റി മെട്റിക്സ് സംഘർഷം ഉണ്ടാകുന്നതിനെ കോട് ചെയ്യുകയാണ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതു പോലെ ഒരെണ്ണം ലോക്ക് അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ കാത്തിരിക്കും ഇനി ഈ ലോക്കുകളെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചും ലോക്കിങ്ങ് പ്രോട്ടോകോളിനെ കുറിച്ചും നമുക്ക് നോക്കാം ലോക്കിങ്ങ് പ്രോട്ടോകോൾ എന്നത് എങ്ങനെയാണ് ട്രാൻസാക്ഷനുകൾക്ക് ലോക്കുകൾ അനുവദിക്കേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ കൺകറൻസിയെ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും ഷെഡ്യൂളുകളിൽ പിഴ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാക്കുവാൻ സാധിക്കും നമ്മൾ നേരത്തെ കണ്ടു ഷെഡ്യൂളുകൾ എഴുതുന്നതിനെയും വായിക്കുന്നതിനെയും കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അബോർട്ട് കമ്മിറ്റ് ഓപ്പറേഷനുകളെ കുറിച്ചും പറയുന്നുണ്ട് ഒരു ലോക്കിങ്ങ് പ്രോട്ടോകോളിൽ ഒരു ഷെഡ്യൂൾ എല്ലാ ലോക്കിങ്ങിനെ കുറിച്ചും അൺ ലോക്കിങ്ങ് ഓപ്പറേഷനുകളെ കുറിച്ചും വ്യക്തമായി പറഞ്ഞിരിക്കണം ഏത് ട്രാൻസാക്ഷനെ ആണ് ലോക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും എല്ലാം പറഞ്ഞിരിക്കണം നമുക്ക് അപ്പോൾ ഇവിടെ ലോക്കിങ്ങോ അൺലോക്കിങ്ങോ കൊടുത്തു എന്ന് ഉറപ്പു പറയുവാൻ സാധിക്കുകയില്ല കാരണം അവയെ കൊടുക്കുന്നത് കൺകറൻസി കൺട്റോൾ മാനേജർ ആണ് അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നു വച്ചാൽ ഇത് ലോക്കിന് അപേക്ഷ കൊടുക്കുന്നു പിന്നീട് അൺലോക്ക് ചെയ്യുന്നു അവയെ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുവച്ചാൽ ട്രാൻസാക്ഷൻ എന്നു വച്ചാൽ ട്രാൻസാക്ഷൻ T 1 ഒരു x ലോക്കിനെ ഡേറ്റാ ഐറ്റം a യോട് ആവശ്യപ്പെടുന്നു അതു കൊണ്ടാണ് ഇവിടെ a ലോക്ക് x എന്ന് കൊടുക്കുന്നത് ഇവിടെ l എന്നത് ലോക്കിങ്ങ് ആണ് x എന്നാൽ a എന്ന ഡേറ്റാ ഐറ്റത്തിനെ ട്രാൻസാക്ഷൻ 1 എക്സ്കളൂസിവ് ലോക്ക് ചെയ്യുന്നതാണ് അപ്പോൾ T1 a യിലേക്കുള്ള X ലോക്കിന് അപേക്ഷ കൊടുക്കുന്നു ഇനി നിങ്ങൾ എന്നു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ട്രാൻസാക്ഷൻ T1 a യിൽ ഉള്ള ലോക്കിനെ വെറുതെ വിടുന്നു എന്നാണ് അപ്പോൾ ഇത് ഒന്നുകിൽ അപേക്ഷിക്കുകയും അല്ലെങ്കിൽ വെറുതെ വിടുകയും ചെയ്യുകയാണ് പിന്നെ ls1 എന്നാൽ ട്രാൻസാക്ഷൻ 1 ഷെയേട് ലോക്കിന് അപേക്ഷിക്കുകയാണ് ഡേറ്റാ ഐറ്റം a യിൽ എസ് ലോക്ക് വരുന്നു പിന്നെ എന്നാൽ ട്രാൻസാക്ഷൻ 1 a യിൽ ഉള്ള എസ് ലോക്കിനെ വെറുതെ വിടുന്നു എന്നാണ് അപ്പോൾ ഇതാണ് ഷെഡ്യൂളിൽ ഉള്ള റീഡ് റൈറ്റ് അബോർട്ട് കമ്മിറ്റ് എന്നിവക്ക് പുറമെയുള്ള നാലു തരത്തിലുള്ള ഓപ്പറേഷനുകൾ അവയെ ലോക്കിങ്ങും അൺ ലോക്കിങ്ങിനും ആയിട്ടുള്ള ഓപ്പറേഷനുകളെ വ്യക്തമാക്കുവാൻ ഉപയോഗിക്കുന്നു നമുക്ക് ഷെഡ്യൂളിനെ താഴെ കാണുന്ന രീതിയിൽ വ്യക്തമാക്കി പറയുവാൻ സാധിക്കും നമുക്ക് ഇവയെ കുറിച്ചു പെട്ടെന്ന് ഒന്നുകൂടി പറയാം ഇത് ഉദേശിക്കുന്നത് എന്താണെന്നു വച്ചാൽ ആദ്യം ട്രാൻസാക്ഷൻ 1 a യിലേക്ക് ഉള്ള എക്സ്ക്ലൂസീവ് ലോക്കിന് അപേക്ഷിക്കുന്നു കിട്ടിയില്ല എങ്കിൽ അത് അവിടെ കാത്തിരിക്കും കിട്ടിയാൽ അത് a യെ വായിക്കും എന്നിട്ട് B യിലോട്ട് എഴുതും അതിനു ശേഷം ട്രാൻസാക്ഷൻ 2 B യിലുള്ള ഷെയേട് ലോക്കിലേക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അവക്ക് അത് കിട്ടുകയും ചെയ്യും കാരണം ഇവിടെ നമ്മൾക്ക് വേറെ ഒരു ട്രാൻസാക്ഷനും വരുന്നില്ല എന്ന് വിചാരിക്കുകയാണ് കാരണം ഇവ രണ്ടും രണ്ട് ഡേറ്റയാണ് ഉപയോഗിക്കുന്നത് ഇത് ഏക്സ്കളുസീവ് ലോക്ക് ആണ് ഇത് B യിലുള്ള ഷെയേട് ലോക്കാണ് അതിന് a യിലോട്ട് ഒന്നും ചെയ്യുവാൻ ഇല്ല ഇത് വായിക്കുന്നു കാരണം ഇതിന് ഷെയേട് ലോക്കാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എഴുതുവാൻ സാധിക്കുകയില്ല അതിനു ശേഷം ട്രാൻസാക്ഷൻ 1 ഏക്സ്കളുസീവ് ലോക്കിനെ വെറുതെ വിടുന്നു അതു പോലെ തന്നെ ട്രാൻസാക്ഷൻ 2 ഷെയേട് ലോക്കിനേയും വെറുതെ വിടുന്നു അതാണ് ഈ ഷെഡ്യൂളിന്റെ അവസാനം ഇങ്ങനെയാണ് ഈ ഷെഡ്യൂളിനെ ഇവിടെ വിവരിക്കുന്നത് ഇനി നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഇവിടെ മറ്റൊരു ഷെഡ്യൂളിനെ ഉപയോഗിക്കാം എന്നിട്ട് അതിൽ എന്തു സംഭവിക്കാം എന്ന് കാണാം ട്രാൻസാക്ഷൻ 1 ന് അപ്പോൾ എക്സ്ക്ലൂസിവ് ലോക്ക് വേണം അതും ഇവിടെ കൊടുക്കപ്പെടില്ല അതുകാരണം അതിന് കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രാൻസാക്ഷൻ 2 A യുടെ എക്സ്ക്ലൂസിവ് ലോക്ക് കിട്ടാൻവേണ്ടി കാത്തിരിക്കും ട്രാൻസാക്ഷൻ 1 അത് റിലീസ് ആക്കുന്നതുവരെ അതിന് അത് കിട്ടില്ല ട്രാൻസാക്ഷൻ 1 അതേസമയം B യുടെ എക്സ്ക്ലൂസിവ് ലോക്കിനായി കാത്തിരിക്കുന്നു അതിനും അത് കിട്ടണമെങ്കിൽ ട്രാൻസാക്ഷൻ 2 റിലീസ് ചെയ്യണം അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത് ട്രാൻസാക്ഷൻ ഒന്ന് A യുടെ എക്സ്ക്ലൂസിവ് ലോക്ക് കൈകാര്യം ചെയ്യുകയാണ് ട്രാൻസാക്ഷൻ ഒന്ന് അതിനെ റിലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആൺലോക്ക് ചെയ്യുകയോ ചെയ്യാതെ ട്രാൻസാക്ഷൻ 2 ന് A യുടെ എക്സ്ക്ലൂസിവ് ലോക്ക് കിട്ടുകയില്ല കാരണം അത് ലോക്ക് കോംപാറ്റിബിലിറ്റി മെട്രിക്സ് അനുവദിക്കുന്നില്ല അതു കാരണം അതിന് അത് കിട്ടുകയും ഇല്ല കിട്ടുന്നതു വരെ അത് അവിടെ കാത്തിരിക്കും ട്രാൻസാക്ഷൻ 2 ഈ സമയത്ത് എക്സ്ക്ലൂസിവ് ലോക്ക് കിട്ടുവാൻ വേണ്ടി കാത്തു നിൽക്കും അതേ സമയം ട്രാൻസാക്ഷൻ ഒന്നിന് B യുടെ എക്സ്ക്ലൂസിവ് ലോക്ക് വേണം ട്രാൻസാക്ഷൻ 2 അതിന്റെ ഷെയേട് ലോക്ക് കൈവശപ്പെടുത്തിയിരിക്കുകയാണ് B യുടെ ഷെയേട് ലോക്ക് അത് റിലീസ് ചെയ്തിട്ടില്ല അപ്പോൾ ട്രാൻസാക്ഷൻ ഒന്നിന് എക്സ്ക്ലൂസീവ് ലോക്ക് വീണ്ടും അത് അനുവദിക്കില്ല അത് കാരണം അതിന് കാത്തിരിക്കേണ്ടിവരും ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രാൻസാക്ഷൻ രണ്ട് എക്സ്ക്ലൂസീവ് ലോക്കിനായി കാത്തിരിക്കുന്നു അത് ട്രാൻസാക്ഷൻ ഒന്ന് റിലീസ് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ ട്രാൻസാക്ഷൻ ഒന്ന് അതേസമയം B യുടെ എക്സ്ക്ലൂസീവ് ലോക്കിനായി കാത്തിരിക്കുന്നു അത് കിട്ടണമെങ്കിൽ ട്രാൻസാക്ഷൻ രണ്ട് റിലീസ് ചെയ്യണം ഇത് ഒരു ക്ലാസിക് ഡെഡ്ലോക്ക് അവസ്ഥയാണ് ട്രാൻസാക്ഷൻ 1 ന് ഒരു ലോക്ക് വേണം പക്ഷേ അത് മറ്റേ ലോക്ക് റിലീസ് ചെയ്യുന്നില്ല അതേസമയം ട്രാൻസാക്ഷൻ 2 ന് മറ്റേ ലോക്ക് വേണം അതിനും അത് കിട്ടുന്നില്ല അത് സ്വന്തം ലോക്ക് റിലീസ് ചെയ്യുന്നുമില്ല അപ്പോൾ രണ്ട് ടാൻസാക്ഷനുകളും ലോക്കിനു വേണ്ടി കാത്തിരിക്കുകയാണ് അവ രണ്ടും റിലീസ് ചെയ്യുന്നുമില്ല അത് കാരണം ഇതൊരു ക്ലാസിക് ഡെഡ്ലോക്ക് അവസ്ഥയാണ് അപ്പോൾ ഷെഡ്യൂളിലുള്ള കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോളുകളും മറ്റും ലോക്കിങ്ങിനേയും അൺലോക്കിങ്ങിനേയും നേരെ ഡെഡ്ലോക്ക് ആക്കാം ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എപ്പോഴാണ് ലോക്കിനു വേണ്ടിയുള്ള അപേക്ഷകൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മാത്രം പറയുന്നു ലോക്ക് ഉടനെ കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നില്ല അത് ലോക്കിന് അപേക്ഷിക്കുന്നു അത് കൺകറൻസി കൺട്രോൾ മാനേജറിനെ ആശ്രയിച്ചിരിക്കുന്നു ഇതിന് അത് കിട്ടാം കിട്ടാതിരിക്കാം പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരിക്കലും ലോക്ക് കോംപാക്ടബിലിറ്റി മെട്രിക്സിനെ ലംഘിക്കാൻ സാധിക്കില്ല അപ്പോൾ മറ്റൊരു ട്രാൻസാക്ഷൻ ഒരു എക്സ്ക്ലൂസീവ് ലോക്കിനെ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മറ്റൊരു എക്സ്ക്ലൂസീവ് ലോക്കോ ഷെയേഡ് ലോക്കോ കിട്ടില്ല ഇനി മറ്റൊരു ട്രാൻസാക്ഷൻ ഷെയേട് ലോക്ക് കൈവശപ്പെടുത്തുകയാണെങ്കിൽ അതിന് എക്സ്ക്ളൂസിവ് ലോക്ക് കിട്ടില്ല അതാണ് ലോക്ക് കോംപാറ്റിബിലിറ്റി മെട്രിക്സ് ഇത് ഡെഡ് ലോക്കിന് കാരണമാകും അല്ലെങ്കിൽ കറക്ട്നസ്സിന് ലംഘനം ഉണ്ടാകും കൺകറൻസി കൺട്രോൾ മാനേജർ ഒരിക്കലും കറക്ട്നസ്സിൽ ലംഘനം വരുത്തുകയില്ല അത് ലോക്ക് കൊടുക്കുകയില്ല അപ്പോൾ ഇവിടെ ഡെഡ് ലോക്ക് വരുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സ്റ്റാർവേഷൻ അല്ലെങ്കിൽ ലൈവ് ലോക്ക് എന്ന മറ്റൊരു ഫിനോമിനലിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ സ്റ്റാർവേഷൻ അല്ലെങ്കിൽ ലൈവ് ലോക്ക് ഫിനോമിനലിൽ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ഉദാഹരണത്തിന് നമ്മുടെ കൈയിൽ ഇപ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ട് എന്ന് കരുതുക ട്രാൻസാക്ഷൻ ഒന്ന് A എന്ന ഐറ്റത്തിന്റെ ലോക്ക് കൈവശപ്പെടുത്തിയിരിക്കുന്നു ഇനി ട്രാൻസാക്ഷൻ 2 നും ട്രാൻസാക്ഷൻ 3 നും അതു വേണം ഇനി ട്രാൻസാക്ഷൻ 1 അതിനെ റിലീസ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ 3 ആ ലോക്കിനെ കൈവശപ്പെടുത്തുന്നു ട്രാൻസാക്ഷൻ 2 ന് കിട്ടുന്നില്ല ഇനി ട്രാൻസാക്ഷൻ 3 അത് റിലീസ് ചെയ്യുന്നതിന് മുൻപ് ട്രാൻസാക്ഷൻ 4 ന് അതെ ഡേറ്റയുടെ അതെ ലോക്ക് തന്നെ വേണം So once transaction 3 releases transaction 4 grabs it and transaction 2 again does not get it and then again before transaction 4 releases transaction 5 wants it so transaction again does not get it So essentially there is no dead lock in the system in the sense that the transactions are proceeding some of the transactions are at least proceeding is not that all the system is halted but transaction 2 is starved it is starved ഇനി ട്രാൻസാക്ഷൻ 3 അതിനെ റിലീസ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ 4 അതിനെ കൈവശപ്പെടുത്തുന്നു അപ്പോൾ ട്രാൻസാക്ഷൻ 2 ന് വീണ്ടും അത് കിട്ടുന്നില്ല ഇനി ട്രാൻസാക്ഷൻ 4 ഇതിനെ റിലീസ് ചെയ്യുന്നതിനു മുൻപു തന്നെ ട്രാൻസാക്ഷൻ 5 ന് ഇത് വേണം എന്നു കരുതുക ട്രാൻസാക്ഷന് അത് അപ്പോൾ കിട്ടുകയില്ല ഇവിടെ അപ്പോൾ സിസ്റ്റത്തിൽ ഡെഡ് ലോക്ക് വരുന്നില്ല അതായത് ട്രാൻസാക്ഷൻ മുന്നോട്ട് പോയി കൊണ്ടേയിരിക്കുന്നു ഏതെങ്കിലും ട്രാൻസാക്ഷനുകൾ മുന്നോട്ട് പൊയ്ക്കോണ്ടു തന്നെയാണ് ഇതിൽ ഇരിക്കുന്നത് എല്ലാ സിസ്റ്റങ്ങളും നിന്നു പോകുന്നില്ല ട്രാൻസാക്ഷൻ 2 ഇവിടെ സ്റ്റാർവ്ഡ് ആയി പോകുകയാണ് അത് സ്റ്റാർവ്ഡ് ആകുകയാണ് ഇതിനെ എന്തുകൊണ്ട് സ്റ്റാർവേഷൻ എന്ന് പറയുന്നു കാരണം ഇതിന് ആവശ്യമുള്ള ലോക്ക് കിട്ടുന്നില്ല മറ്റു ട്രാൻസാക്ഷനുകൾക്കാണ് ആ ലോക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഫിനോമിനനെ നമ്മൾ സ്റ്റാർവേഷൻ അല്ലെങ്കിൽ ലൈവ് ലോക്ക് എന്നു പറയുന്നു ഷെഡ്യൂളുകൾ ലോക്കുകൾക്ക് അപേക്ഷിക്കുകയും അവയെ റിലീസ് ചെയ്യുകയും ചെയ്യുമ്പോഴും ഇങ്ങനെ ഉണ്ടാകാറുണ്ട് ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ലോക്കിംഗ് പ്രോട്ടോകോൾ ആണ് അപ്പോൾ ലോക്കിങ് പ്രോട്ടോകോൾ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ ലോക്കുകൾക്ക് അപേക്ഷിക്കേണ്ടതെന്നും എങ്ങനെയാണ് ലോക്കുകളെ റിലീസ് ചെയ്യേണ്ടതെന്നും കറക്റ്റ്നെസ്സ് ലഭിക്കാതെ എങ്ങനെ വരും എന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നു അങ്ങനെയുള്ള ലോക്കിങ്ങ് പ്രോട്ടോകോളിനെക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തതായി പഠിക്കാൻ പോകുന്നത്